അതിനാൽ ശരിയാണ് നമ്മൾ എങ്ങനെയാണ് ഉറവിടം പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ് കണക്കാക്കുന്നത് എല്ലാം കണ്ടതിനുശേഷം അടുത്തതായി നമ്മൾ കണ്ടെത്തേണ്ടതുണ്ടെന്ന് ഞാൻ കരുതുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് എന്നാണ് നമ്മൾ അതിനാൽ ഒരു ആന്റിന ഡിസൈനറുടെ വീക്ഷണകോണിൽ നിന്ന് എന്തുകൊണ്ട് കമ്പ്യൂട്ടേഷണൽ ഇലക്ട്രോമാഗ്നെറ്റിക്സിൽ താൽപ്പര്യം പ്രകടിപ്പിക്കാൻ നിങ്ങൾക്ക് ഒരു ആന്റിന ഡിസൈനറെ എങ്ങനെ പ്രചോദിപ്പിക്കാനാകും അതിനാൽ ആന്റിനയുടെ ഉപരിതലത്തിലെ വൈദ്യുതധാരകൾ അറിയില്ലെങ്കിൽ മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങൾ Maxewell's equations പരിഹരിക്കേണ്ടതുണ്ട് അതിനാൽ നമുക്ക് കറന്റ് ലഭിക്കും അടുത്ത ചോദ്യം അതിനെന്താണ് ഒരിക്കൽ നിങ്ങൾക്ക് വൈദ്യുതധാരകൾ ലഭിച്ചുകഴിഞ്ഞാൽ അതിൽനിന്ന് നിങ്ങൾക്ക് ലഭിക്കും അതിൽനിന്ന് നിങ്ങൾക്ക് ലഭിക്കും പിന്നെ ശരിയല്ലേ ആന്റിന എഞ്ചിനീയർ എന്തിനാണ് CEM നെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന മറ്റേതെങ്കിലും വശം ആന്റിനയുടെ ഇംപഡൻസിനെ കുറിച്ചുള്ള ഉത്തരം സ്ലൈഡിലാണ് അതിനാൽ സാധാരണയായി ഞാൻ അർത്ഥമാക്കുന്നത് പരമ്പരാഗതമായ RF ലോകവും ആന്റിന ലോകവും രണ്ട് വ്യത്യസ്ത ലോകങ്ങളാണ് അതിനാൽ നിങ്ങളുടെ സിഗ്നലുകളും എല്ലാം സൃഷ്ടിക്കുന്ന ചില RF സർക്യൂട്ട് നിങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് ഒരു ആന്റിനയുണ്ട് ഇപ്പോൾ നിങ്ങൾ രണ്ട് വ്യത്യസ്ത വൈദ്യുത ഘടകങ്ങൾ സംയോജിപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കും വിദ്യാർത്ഥി പൊരുത്തക്കേട് ഇംപെഡൻസിന്റെ പൊരുത്തക്കേട് ഉണ്ടാകാം ഇംപെഡൻസിന്റെ പൊരുത്തക്കേട് കാരണം എന്ത് സംഭവിക്കും വിദ്യാർത്ഥി പ്രതിഫലനം ശരി എല്ലാ ശക്തിയും ഒപ്റ്റിമൽ പവർ അല്ല എന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് പവർ നിങ്ങൾക്ക് ആവശ്യമുള്ള ലോഡിലേക്ക് ഇടുകയില്ലെന്ന് ഞാൻ അർത്ഥമാക്കുന്നു അതിൽ ചിലത് വീണ്ടും പ്രതിഫലിക്കുന്നു അത് അഭികാമ്യമല്ല അപ്പോൾ ആന്റിനയുടെ പ്രതിരോധം എന്താണെന്ന് നമുക്ക് എങ്ങനെ അറിയാം ശരി നമുക്ക് പുറകിലേക്ക് നോക്കാം ആന്റിന ഡിസൈനിനായി CEM ന്റെ പ്രധാന പ്രയോഗം ഞാൻ പിന്തുടരുന്നു അതിനാൽ ട്രാൻസ്മിറ്റിംഗ് മോഡിൽ ഞാൻ ആന്റിനക്ക് തുല്യമായ സർക്യൂട്ട് വരയ്ക്കാൻ പോകുന്നു അതിനാൽ അതിൽ എന്താണ് ഉള്ളത് നമുക്ക് ട്രാൻസ്മിറ്റിംഗ് കേസ് എടുക്കാം അതിനാൽ നിങ്ങൾക്ക് അറിയാവുന്ന ചില ജനറേറ്റർ ഉണ്ട് അതിന് അതിന്റേതായ ചില തടസ്സങ്ങളുണ്ട് സങ്കീർണ്ണമായ ഇംപെഡൻസ് ആണ് അതിനാൽ ഇതാണ് RF എഞ്ചിനീയർ ഡിസൈൻ വൈദഗ്ദ്ധ്യം നിങ്ങൾക്ക് നൽകുന്നത് ഇപ്പോൾ നിങ്ങളുടെ ആന്റിനയെ അതിലേത്തേക്ക് ബന്ധിപ്പിക്കുന്നു അതിനാൽ ഇത് ഇവിടെ രണ്ട് പോർട്ട് ആണെന്നും കൂടാതെ ഇതാണ് നിങ്ങളുടെ ആന്റിന എന്നും നമുക്ക് വിചാരിക്കാം അതിനാൽ ഈ രണ്ട് ലോകങ്ങളും കണ്ടുമുട്ടുന്നത് ഇവിടെയാണ് ഇതാണ് നിങ്ങളുടെ ആന്റിന അതിനാൽ അത് ഇതുപോലെ റേഡിയേഷൻ അയയ്ക്കുന്നു ഇതിന് തുല്യമായ സർക്യൂട്ട് എന്താണ് എന്ന് ശരിയാക്കുക ഇത് വളരെ ലളിതമാണ് അതിനാൽ ഞാൻ ഇവിടെ നിന്ന് നോക്കുന്നു എന്ന് കരുതുക ഈ മുഴുവൻ കാര്യവും മറ്റൊരു ഇംപെഡൻസ് ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കാം അതിനാൽ ഇത് എനിക്ക് മാറ്റി സ്ഥാപിക്കാം അപ്പോൾ ഈ ജനറേറ്റർ ഇവിടെ ഉണ്ടാവും എനിക്ക് എവിടെ കുറച്ച ഉണ്ട് ഇതാണ് എന്റെ പോർട്ട് a യും b യും ശരിയല്ലേ അതിനാൽ കുറച്ച് റിയാക്ടീവ് ഉണ്ട് ഞാൻ അർത്ഥമാക്കുന്നത് കുറച്ച് റെസിസ്റ്റീവ് ഭാഗവും ചില റിയാക്ടീവ് ഭാഗവും ഉണ്ട് അതിനാൽ ആന്റിനയെ ഈ ലമ്പ് പാരാമീറ്റർ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിച്ചു അതിനാൽ ഇത് ഒരുമിച്ച് അതിനാൽ ഈ ആശയം എന്താണെന്ന് ഞാൻ കണ്ടെത്തേണ്ടതുണ്ട് അല്ലാത്തപക്ഷം എങ്ങനെ ഒപ്റ്റിമൽ പവർ ട്രാൻസ്ഫറിനായി എനിക്ക് എന്താണ് വേണ്ടത് വിദ്യാർത്ഥി Za കോൺജുഗേറ്റ് ശരിയാണ് അതിനാൽ എനിക്ക് അറിയാം എന്താണ് ശരിയെന്ന് ഞാൻ കണ്ടുപിടിക്കേണ്ടതുണ്ട് എന്താണെന്ന് എനിക്ക് കൃത്യമായി അറിയില്ല നിങ്ങളുടെ റിസീവിങ്ങ് ആന്റിനയുടെ കാര്യത്തിലും സമാനമായ പ്രശ്നം വരുന്നു അതിനാൽ റിസീവിങ്ങ് ആന്റിന അങ്ങനെയാണ് എനിക്ക് ഇത് വരയ്ക്കാം അതിനാൽ ഇവിടെ എനിക്ക് കുറച്ച് ലോഡ് ഉണ്ടാകും ഇത് എന്റെ രണ്ട് ആന്റിനകളുടെ ടെർമിനലുകളാണ് ഇത് എന്റെ റിസീവിങ്ങ് കേസാണ് കൂടാതെ സർക്യൂട്ട് തുല്യമായത് കണക്റ്റുചെയ്തിരിക്കുന്ന ലോഡായി ഉടനീളം മാറും ഇവിടെ ഉടനീളം എന്ത് സംഭവിക്കും എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ എന്താണ് വരയ്ക്കേണ്ടത് തുല്യമായത് എന്തായിരിക്കും വിദ്യാർത്ഥി ഒരു വോൾടേജ് ഉറവിടം ഒരു വോൾട്ടേജ് സ്രോതസ്സ് ടെർമിനലിൽ ചില ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് ഉണ്ട് അതിനാൽ ചില എഴുതാൻ പാടില്ലാത്തവ എന്റെ പക്കലുണ്ട് ഊഹിക്കുന്ന ചിലത് ചിലത് പ്രചോദിപ്പിക്കപ്പെട്ടതും അതേപടി നിലനിൽക്കുന്നതും സാധാരണയായി പാരസ്പര്യത്താൽ അതിനാൽ ഇത് അതേ പൂർണ്ണമായും ഇൻഡ്യൂറ്റീവ് ആണ് ആന്റിന ടെർമിനലുകളിൽ പ്രചോദിപ്പിക്കപ്പെടുന്ന കുറച്ച് വോൾടേജ് ആ വോൾട്ടേജ് ആന്റിനയുടെ ഇംപെഡൻസിലും ലോഡിന്റെ ഇംപെഡൻസിലും വീഴുന്നു നിങ്ങൾ എങ്ങനെ കണ്ടെത്തും എന്നതാണ് ചോദ്യം വിദ്യാർത്ഥി Z പാരാമീറ്റർ ഉപയോഗിച്ച് ഉപയോഗിക്കുന്നത് വിദ്യാർത്ഥി Z പാരാമീറ്റർ അതിനാൽ അളവ് അളക്കുക എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥി ഇല്ല നമുക്ക് ആന്റിനയ്ക്ക് തുല്യമായ സർക്യൂട്ട് ലഭിക്കുകയാണെങ്കിൽ അത് വളരെ എളുപ്പമാണ് തടസ്സം അവസാനിപ്പിക്കുന്നു അല്ല നമുക്ക് എങ്ങനെ തുല്യമായ സർക്യൂട്ട് ലഭിക്കും എന്ന് നിങ്ങൾ പറയുമ്പോൾ ഞാൻ ഒരു ബോക്സ് വരച്ചിട്ടുണ്ട് എന്നാൽ അതിന്റെ മൂല്യം എനിക്കെങ്ങനെ അറിയാം അത് എവിടെ നിന്നെങ്കിലും വരണം വിദ്യാർത്ഥി അത് തുല്യമായ സർക്യൂട്ട് വിതരണമാണ് ഒന്നുകിൽ അത് അളക്കുന്നതിൽ നിന്ന് വരും വിദ്യാർത്ഥി ഹാ അല്ലെങ്കിൽ അത് എവിടെ നിന്ന് വരും ഇത് മാക്സ്വെല്ലിന്റെ Maxwell's ചില സമവാക്യങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ചില ഏകദേശ കണക്കിൽ നിന്നോ അല്ലെങ്കിൽ ഇതിലെ മറ്റെന്തെങ്കിലുമോ നിന്നോ വരണം അത് എവിടെ നിന്ന് വരും വിദ്യാർത്ഥി നിന്ന് വരും അതെ ഞാൻ അതിനെ ലംപ്ഡ് ഘടകങ്ങളാക്കി മാറ്റി പക്ഷേ ലംപ് പാരാമീറ്ററുകളുടെ മൂല്യം എനിക്കറിയില്ല കൂടാതെ ന്റെ മൂല്യത്തിന് ഞാൻ എന്ത് നൽകണം ഇത് ഉദാഹരണത്തിന് ആന്റിനയുടെ എല്ലാ ഫിസിക്കൽ പാരാമീറ്ററിന്റെയും നീളത്തെ ആശ്രയിച്ചിരിക്കണം ഇതിനർത്ഥം ഇവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങൾ Maxwell's equations ഉൾപ്പെട്ടിരിക്കുന്ന ബൌണ്ടറി കണ്ടിഷനുകൾ ഉൾപ്പെടുന്നു അതിനാൽ ഈ ലംപ് പാരാമീറ്ററുകൾ കണക്കാക്കാൻ ഉപയോഗിക്കുന്ന ഏകദേശ സിദ്ധാന്തത്തിന്റെ ഒരു വലിയ സിദ്ധാന്തമുണ്ട് അത് സിനുസോയ്ഡൽ കറന്റിനെ അനുമാനിക്കും ഇത് ലീനിയർ കറന്റ് അനുമാനിക്കും ഈ ഏകദേശങ്ങളെല്ലാം അവിടെയുണ്ട് അത് നിങ്ങൾക്ക് എന്തെങ്കിലും രൂപത്തിലുള്ള തരും ഞാൻ ആ സിദ്ധാന്തം കവർ ചെയ്യുന്നില്ല അവിടെ ധാരാളം ഉണ്ട് അതിൽ ഒന്നിനെ ഇൻഡ്യൂസ്ഡ് EMF രീതി എന്ന് വിളിക്കുന്നു അതിനാൽ വിവിധ രീതികൾ ഉണ്ട് ഈ കോഴ്സിന്റെ ഉദ്ദേശ്യം ഇത് എങ്ങനെ കർശനമായും കൃത്യമായും ചെയ്യാമെന്ന് നിങ്ങളോട് പറയുക എന്നതാണ് ഒന്നുമില്ലാതെ സാധ്യമായതിൽ ഏറ്റവുo കുറച്ച് അപ്പ്രോക്സിമേഷൻ ആണ് ഇവിടത്തെ ലക്ഷ്യം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിനാൽ പ്രധാന ചോദ്യം എന്താണ് അതൊരു മില്യൺ ഡോളർ ചോദ്യമാണ് അതിലുപരിയായി നിങ്ങൾ കൂടുതൽ സങ്കീർണ്ണമായ സാങ്കേതികവിദ്യയിലേക്ക് പോകുമ്പോൾ ഇത് കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നു കാരണം നിങ്ങൾ 5G ആന്റിന അറേ ബോർഡിനെക്കുറിച്ച് ശരിയായി ചിന്തിച്ചിട്ടുണ്ട് ആന്റിന ഘടകങ്ങളെല്ലാം വളരെ രസകരവും വളരെ സങ്കീർണ്ണവുമായ ഘടനകളാണ് അതിനാൽ നിങ്ങളുടെ എല്ലാ യഥാർത്ഥ അപ്പ്രോക്സിമേഷനുകൾ ഒരു നല്ല സിനുസോയിഡൽ കറന്റ് ആണെങ്കിൽ അവ മേലിൽ സാധുതയുള്ളതല്ല അതിനാൽ നിങ്ങൾ ഇത് സംഖ്യാപരമായി ശരിയായി ചെയ്യണം അതിനാൽ അതാണ് കാര്യം ഇപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ അതിനാൽ ഞങ്ങൾ പോക്ക്ലിംഗ്ടൺ ഇന്റഗ്രൽ സമവാക്യം പഠിച്ചു ശരിയല്ലേ ഞാൻ ഇത് എങ്ങനെ കണക്കാക്കും അപ്പോൾ നമ്മൾ എന്താണ് ചെയ്തത് ഈ ഡെൽറ്റ വിടവിന്റെ ഏകദേശ കണക്ക് പരിശോധിക്കാൻ അനുവദിക്കണമെന്ന് ഞങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു അതിനാൽ ഡെൽറ്റ വിടവ് അകലത്തിൽ പ്രയോഗിച്ച Va വോൾട്ടുകളാണ് ഈ ദൈർഘ്യം ഏകദേശം ക്യാപിറ്റൽ L ആണ് ഞാൻ ഇവിടെ എന്താണ് ചെയ്തത് ഞാൻ ഇത് ഭാഗങ്ങളായി വിഭജിക്കുകയും ഓരോ ഭാഗത്തിലും ഇവിടെ മൊമെന്റുകളുടെ ഒരു രീതി പ്രയോഗിക്കുകയും ചെയ്തു അതിനാൽ MoM ന് ശേഷമുള്ള അന്തിമ ഫലം അത് എന്തായിട്ടാണ് അറിയപ്പെടുന്നത് എനിക്കറിയാം ഞാൻ സമഗ്ര സമവാക്യങ്ങൾ പരിഹരിച്ചതിനുശേഷം ഇപ്പോൾ എന്താണ് സ്പെയ്സിന്റെ ഒരു ഫംഗ്ഷൻ ആകുന്നു ആന്റിനയുടെ നീളത്തിൽ പൾസ് അടിസ്ഥാനത്തിൽ ഞാൻ വിപുലീകരിച്ചു അതിനാൽ ഇപ്പോൾ ഞാൻ ഏത് ഇടും വിദ്യാർത്ഥി ഉറവിടങ്ങൾക്ക് സമീപം പരിഹരിച്ചതിന് ശേഷം ഉറവിടത്തിന് സമീപം എനിക്ക് ലഭിക്കുന്നത് പ്രയോഗിച്ച വോൾട്ടേജിന് തുല്യമായിരിക്കും അതിനാൽ അടിസ്ഥാനപരമായി ഇൻപുട്ട് ടെർമിനലുകളിലെ കറന്റും വോൾട്ടേജും അതാണ് ഇംപെഡൻസ് അതിനാൽ അത് ശരിയാണ് അതിനാൽ ഇവിടെയുള്ള ഈ കോർഡിനേറ്റ് ശരിയാണെന്ന് നമുക്ക് പറയാം അതിനാൽ ഇവിടെയുള്ള ഇൻപുട്ട് ഇംപെഡൻസിന്റെ മൂല്യം എന്താണെന്ന് നിങ്ങൾ കണക്കുകൂട്ടിയതിന് ശേഷം എന്താണ് നിങ്ങളുടെ CEM നിങ്ങളോട് പറയാൻ പോകുന്നത് ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഫ്രീ സ്പേസ് ഇംപെഡൻസുമായി പൊരുത്തപ്പെടാൻ കഴിയില്ല വിദ്യാർത്ഥി ഞാൻ ഉദ്ദേശിക്കുന്നത് അതെ നിങ്ങൾക്ക് അതുമായി പൊരുത്തപ്പെടുത്താൻ കഴിയില്ല അറിയാമോ 50 ഓംസ് 75 ഓംസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സർക്യൂട്ട് ഇംപെഡൻസ് ഉണ്ടെന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് തുടർന്ന് നിങ്ങൾ അത് അവിടെ പൊരുത്തപ്പെടുത്തണം അതെ നിങ്ങൾക്ക് സ്വതന്ത്ര ഇടവുമായി പൊരുത്തപ്പെടാൻ കഴിയില്ല എല്ലാ റേഡിയേഷനും പുതിയതായി സ്വതന്ത്ര സ്ഥലത്തേക്ക് പോകില്ല അതിനാൽ ഞാൻ ഇൻപുട്ട് ഇംപെഡൻസ് എങ്ങനെ കണക്കാക്കാം എന്ന നടപടിക്രമം വ്യക്തമാണ്